ഈ കോഴ്സിനെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് എന്ന് വിളിക്കാം ഡിസൈൻ എന്നത് എളുപ്പത്തിൽ മനസിലാക്കാൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് ഒരു പ്രോബ്ലമുണ്ട് അതിനുവേണ്ടി ഒരു അൽഗോരിതം നമ്മൾ രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അനാലിസിസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അനാലിസിസ് എന്നാൽ ഒരു അൽഗോരിതം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് കണക്കാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അടിസ്ഥാന പാരാമീറ്ററുകൾ ഉണ്ട് അതിലൊന്ന് സമയം ആണ് ഒരു നിശ്ചിത ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കാൻ അൽഗോരിതം എത്ര സമയമെടുക്കും ഒരു അൽഗോരിതം ഒരു പ്രോഗ്രാമായി എക്സിക്യൂട്ട് ചെയ്യുമെന്നത് ഓർക്കുക അതിനായി നമുക്ക് ഇത് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുകയും ചില പ്രത്യേക മെഷീനിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യണം അത് പ്രവർത്തിക്കുമ്പോൾ ഉത്തരം കണക്കുകൂട്ടാൻ നമുക്ക് എല്ലാത്തരം ഇന്റർമീഡിയറ്റ് വേരിയബിളുകളും ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിന് എത്ര സ്പേസ് ആവശ്യമാണ് അതായത് ഇതിന് എത്ര മെമ്മറി ആവശ്യമാണ് ഈ കോഴ്സിൽ നമ്മൾ സ്ഥലത്തേക്കാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സമയത്തിൽ ആണ് ഇതിനുള്ള ഒരു കാരണം ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ കൂടുതൽ പരിമിതപ്പെടുത്തുന്ന പാരാമീറ്ററാണ് സമയം എന്നതാണ് ഒരു കമ്പ്യൂട്ടർ എടുത്ത് അതിന്റെ വേഗത മാറ്റുന്നത് എളുപ്പമല്ല അതിനാൽ നമുക്ക് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ അൽഗോരിതം പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് വേഗതയുടെ അടിസ്ഥാനത്തിൽ ആ പ്ലാറ്റ്ഫോമിന് നൽകാൻ കഴിയുന്ന പ്രകടനത്തിൽ ആയിരിക്കും മറുവശത്ത് മെമ്മറി എന്നത് താരതമ്യേന കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് നമുക്ക് മെമ്മറി കാർഡ് ചേർക്കാനും അതുവഴി മെമ്മറി വർദ്ധിപ്പിക്കാനും കഴിയും അതിനാൽ ഒരർത്ഥത്തിൽ സ്പേസ് കൂടുതൽ ഫ്ലെക്സിബിളായ ഒരു ആവശ്യകതയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും അതിനാൽ ഈ കോഴ്സിനായി നമുക്ക് സ്പേസിനേക്കാൾ കൂടുതൽ സമയത്തിൽ ശ്രദ്ധകേന്ദ്രീകരിക്കും നമ്മൾ ടൈം ആണ് നോക്കുകയാണെങ്കിൽ അൽഗോരിതത്തിന്റെ റണ്ണിങ് ടൈം എങ്ങനെ അളക്കുന്നുവെന്ന് നമുക്ക് ചോദിക്കണം തന്നിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് ക്ക് ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാനും അതിന്റെ ഉത്തരം സെക്കൻഡിൽ അല്ലെങ്കിൽ മില്ലിസെക്കൻഡിൽ റിപ്പോർട്ടുചെയ്യാനും കഴിയും എന്നാൽ ഇതിന്റെ പ്രോബ്ലം ഒരു പ്രത്യേക ഹാർഡ്വെയറിന്റെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ഒരു അൽഗോരിത്തിന്റെ പ്രവർത്തന സമയം തീർച്ചയായും ശക്തമായ ഒരു അളവുകോൽ ആയിരിക്കില്ല വ്യത്യസ്ത കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴും ഒരേ അൽഗോരിതം വ്യത്യസ്ത സമയമെടുക്കുമെന്ന് നമുക്ക് കാണാം ഏറ്റവും പ്രധാനമായി നമ്മൾ രണ്ട് വ്യത്യസ്ത അൽഗോരിതങ്ങൾ രണ്ട് വ്യത്യസ്ത കമ്പ്യൂട്ടറുകളിൽ പ്രവർത്തിപ്പിച്ച് അവ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു താരതമ്യം ലഭിച്ചേക്കാം അതിനാൽ ചില യൂണിറ്റ് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ റണ്ണിങ് ടൈം നോക്കുന്നതിനുപകരം അൽഗോരിതം എത്ര ഘട്ടങ്ങൾ എടുക്കുന്നു എന്നതിന്റെ ചില യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നതാണ് നല്ലത് അതിനാൽ എന്താണെന്ന് ഒരു സ്റ്റെപ് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട് ഒരു സ്റ്റെപ് എന്നത് ഒരു അൽഗോരിതം നിർവ്വഹിക്കുന്ന ഒരടിസ്ഥാന പ്രവർത്തനമാണ് കൂടാതെ സ്റ്റെപ്പിനെക്കുറിച്ചുള്ള സങ്കൽപം തീർച്ചയായും നമ്മൾ ഏതുതരം ലാംഗ്വേജ് ആണുപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു അസംബ്ലി ലാംഗ്വേജ് തലത്തിൽ സ്റ്റെപ്പുകൾ പ്രധാനമായും മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്കും രജിസ്റ്ററിൽ നിന്നും മെമ്മറിയിലേക്കും ഡാറ്റ നീക്കുക CPU വിനുള്ളിൽ ചില അരിതമേറ്റിക് പ്രവർത്തനം നടത്തുക തുടങ്ങിയവ ഉൾപ്പെടുന്നു എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ അൽഗോരിതം ഡിസൈൻ ചെയ്യുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉയർന്ന തലത്തിലാണ് C C അല്ലെങ്കിൽ Java പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്കളിൽ നമുക്ക് വേരിയബിളുകൾ ഉണ്ട് അവിടെ നമ്മൾ വേരിയബിളുകൾക്ക് വാല്യൂസ് നൽകി എക്സ്പ്രഷൻ കണക്കുകൂട്ടുന്നു അതിനാൽ ഹൈ ലെവൽ ലാംഗ്വേജ്കളിൽ ഒറ്റ പ്രസ്താവനയെയോ സ്റ്റെപ്പിനെയോ ഒരു അടിസ്ഥാനപരമായ പ്രവർത്തനമായി പരിഗണിക്കുന്നു ഇത് X Y 1 എന്നെഴുതുകയോ അല്ലെങ്കിൽ A യുടെ മൂല്യം B യേക്കാൾ കുറവാണോ എന്ന് പരിശോധിക്കുന്ന ഒരു താരതമ്യം ചെയ്യലോ ഒക്കെ ആവാം ഇനി നമുക്ക് സ്റ്റെപ്പിനെക്കുറിച്ച കുറച്ചുകൂടി വിശദമായി നോക്കാം ഉദാഹരണത്തിന് രണ്ട് വേരിയബിളുകളിൽ മൂല്യങ്ങൾ ഒരു താൽക്കാലിക വേരിയബിളിലൂടെ കൈമാറ്റം ചെയ്യാനുള്ള ഒരു രീതി നമുക്ക് അറിയാം ഇവിടെ നമ്മൾ കാണുന്നത് അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ധാരണ അത്ര പ്രസക്തമല്ലാത്തവിധമുള്ള ഒരാശയമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആശയം അനുസരിച്ച് സ്റ്റെപ്പ് എന്നത് വ്യത്യസ്ത രീതിയിൽ അളക്കുവാൻ നമുക്ക് കഴിയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യം ഒരു അൽഗോരിതം അതവതരിപ്പിക്കുന്ന പ്രോബ്ലത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ച് വ്യത്യസ്ത സമയം എടുക്കും എന്നതാണ് നമ്മൾ ഒരു അറേ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ചെറിയ അറേ എടുക്കുന്നതിനേക്കാൾ കൂടുത സമയം വലിയ അറേ എടുക്കും എന്നത് തികച്ചും സ്വാഭാവികവും വ്യക്തവുമാണ് അതിനാൽ ഒരു അൽഗോരിതത്തിന്റെ കാര്യക്ഷമത അതിന്റെ ഇൻപുട്ടിന്റെ വലുപ്പവുമായി നമുക് ബന്ധപ്പെടുത്താവുന്നതാണ് അതിനാൽ ഇൻപുട്ടിന്റെ വലുപ്പം n ആണെങ്കിൽ അൽഗോരിതം t സമയമെടുക്കും ഇവിടെ t എന്നത് ഇൻപുട്ടിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫങ്ക്ഷനാണ് എന്നാൽ ഇത് പോലും വ്യക്തമായ ഒരു നിർവ്വചനമല്ല കാരണം n വലുപ്പത്തിലുള്ള എല്ലാ ഇൻപുട്ടുകളും എടുക്കുന്ന സമയത്തിന്റെ അളവ് സമാനമാകില്ല എന്നത് തന്നെ ചില ഇൻപുട്ടുകൾക്ക് കുറച്ച് സമയമെടുക്കും ചില ഇൻപുട്ടുകൾക്ക് കൂടുതൽ സമയമെടുക്കും അതിനാൽ നമ്മൾ എന്താണ് എടുക്കുന്നത് നമ്മൾ സാധാരണ n വലുപ്പത്തിന്റെ എല്ലാ ഇൻപുട്ടുകളും നോക്കി അതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഏറ്റവും മോശമായ ഒന്ന് എടുക്കും ഇതിനെ ഒരു വേർസ്റ്റ് കേസ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണിതെന്നു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ന്യായീകരിക്കാനാകും ഒരു അൽഗോരിത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് n വലിപ്പമുള്ള ഇൻപുട്ടുകൾ എടുത്ത് അവ പ്രകടിപ്പിക്കുന്ന ഏറ്റവും മോശമായ സമയം കണ്ടുപിടിച്ചു ഇത് n ന്റെ ഒരു ഫങ്ക്ഷനായി കാണിക്കുന്നു ഇത് ഔപചാരികമാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി നമുക്ക് ലഭ്യമായ കമ്പ്യൂട്ടറുകളിൽ പ്രായോഗികമായ റണ്ണിങ് ടൈമിന്റെ കാര്യക്ഷമത എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മിക്ക അൽഗോരിതങ്ങളുടെയും പ്രാഥമിക സ്റ്റെപ്പായ സോർട്ടിങ്ങിൽ തുടങ്ങാം നമുക്ക് n എലെമെന്റുകൾ ഉള്ള ഒരു അറയുണ്ട് പിന്നീടുള്ള പ്രവർത്തന ആവശ്യങ്ങൾക്കുവേണ്ടി ഈ എലമെൻകളെ നമുക്ക് ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ എഴുതേണ്ടതുണ്ട് നമ്മുടെ സോർട്ടിങ് അൽഗോരിതം എല്ലാ 2 എലമെൻകളെയും താരതമ്യം ചെയ്തു ചെറുതോ വലുതോ എന്ന് നോക്കി അവയെ എങ്ങനെ പുനഃക്രമീകരിക്കണംഎന്ന് തീരുമാനിക്കുന്നു ഇവിടെ എല്ലാ രണ്ട് എലെമെന്റുകളെയും താരതമ്യം ചെയ്യുന്നതിനാൽ n സ്ക്വയർ സമയം എടുക്കും അധികം വൈകാതെ ഈ കോഴ്സിൽ തന്നെ വളരെ കുറച്ച് സമയം മാത്രം അതായത് n log n സമയം ഉപയോഗിച്ച് ഇതേ സോർട്ടിങ് ചെയ്യുന്ന അൽഗോരിതങ്ങൾ നമ്മൾ കാണും അതിനാൽ n സ്ക്വയർ സമയമെടുക്കുന്ന സാധാരണ അൽഗോരിതത്തിൽനിന്നു കുറേക്കൂടി മെച്ചപ്പെട്ട n log n സമയമെടുക്കുന്ന അൽഗോരിതത്തിലേക്ക് നമ്മൾ പോകും നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ n ന്റെ ഒരു ഘടകത്തിനെ log n ന്റെ ഘടകമായി മാറുന്നു ഇതൊരു ചെറിയ വ്യത്യാസം ആയി തോന്നാം ഈ വ്യത്യാസത്തിന്റെ ഫലം എന്താണെന്ന് നമുക്ക് കാണാം ഇതിനുള്ള ഒരു മാർഗ്ഗം യഥാർഥ റണ്ണിങ് ടൈം നോക്കുക എന്നുള്ളതാണ് റണ്ണിംഗ് ടൈം എന്നത് ഒരു അൽഗോരിതത്തിന്റെ കാര്യക്ഷമത അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രോഗ്രാം നാം എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നതിലും അതു അതുവഴി ഈ പ്രോഗ്രാം പ്രായോഗികമായി ഉപയോഗപ്പെടുത്തുന്നതിലും അതിൻറെ കാര്യക്ഷമത ഒരു പ്രധാന പങ്കു വഹിക്കുന്നു ഇന്ന് നമ്മുടെ കൈവശമുള്ള ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ് CPU നോക്കിയാൽ അതിന് 108 പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കും ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉള്ള അസൈൻമെൻറ് അല്ലെങ്കിൽ രണ്ടു വാല്യു തമ്മിലുള്ള താരതമ്യം മുതലായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത് ഇത് ഒരു ഏകദേശ കണക്കാണ് അൽഗോരിത ങ്ങളെ താരതമ്യം ചെയ്യുവാനും നമുക്ക് ചില അളവുകൾ ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു ഒരു നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ അൽഗോരിതങ്ങളെ താരതമ്യം ചെയ്യുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്പറിനു മാറ്റം വരുന്നില്ല എന്നതാണ് തീർച്ചയായും CPU സ്പീഡ് ഓരോ ആറു മാസത്തിലും കൂടുന്നു എന്ന് വിചാരിക്കാം അതിനു വേണ്ടി നമുക്ക് പല മാർഗങ്ങളുണ്ട് എന്നിരുന്നാലും സാങ്കേതികവിദ്യക്ക് അതിൻറെതായ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്ത് സ്പീഡ് കൂട്ടുവാൻ സാധിക്കില്ല ഈ കുറവ് മറികടക്കാൻ നമുക്ക് പാരലലൈസിങ് മൾട്ടികോർ മുതലായ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാവുന്നതാണ് എന്നിരുന്നാലും എല്ലാ CPU ഉം 108 ഓപ്പറേഷൻ ഒരു സെക്കൻഡിൽ എന്ന പരിധിക്കുള്ളിൽ നിൽക്കുന്നു നമുക്ക് ഒരു ചെറിയ ഉദാഹരണമെടുക്കാം നമ്മൾ നമ്മുടെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റ് സോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കാം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നൂറോ ആയിരമോ കോൺടാക്റ്റുകൾ ആയിരിക്കും ഉണ്ടാവുക പേരിൻറെ അടിസ്ഥാനത്തിൽ ഇവ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നൂറും ആയിരവും തമ്മിൽ വലിയ വ്യത്യാസം കാണിക്കില്ല രണ്ട് അവസരങ്ങളിലും കുറച്ചു നിമിഷങ്ങക്കുള്ളിൽ ഉത്തരം ലഭിക്കും എന്നാൽ നമ്മൾ വളരെ വലിയ ഇൻപുട്ട് പരിഗണിക്കുമ്പോൾ സമയത്തിൽ ഉള്ള വ്യത്യാസം വളരെ വലുതായിരിക്കും അടുത്തതായി നമുക്ക് രാജ്യത്തെ എല്ലാ മൊബൈൽ ഉപയോക്താക്കളുടേയും ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം ഇന്ത്യയിൽ ഏകദേശം 100 കോടി മൊബൈൽ ഉപയോക്താക്കളുണ്ട് ഡേറ്റ കാർഡ് മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെയെല്ലാം ഏതെങ്കിലുമൊക്കെ ഓപ്പറേറ്ററിനു പേര് നൽകിയിട്ടുള്ള ഉപയോക്താക്കളുടെ എണ്ണമാണിത് അതായത് ഇത്രയും സിം കാർഡുകൾ ഇന്ത്യയിൽ ഇന്ന് ഉപയോഗത്തിലുണ്ട് നമുക്ക് ഈ ഉപയോക്താക്കളുടെ പേരുവിവരങ്ങൾ ഏതെങ്കിലുമൊരു ഒരു ഓർഡറിൽ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക നമുക്ക് 10 9 ഉപയോക്താക്കൾ ഉള്ളതിനാൽ നമ്മൾ ഒരു n സ്ക്വയർ റണ്ണിങ് ടൈം ഉള്ള അൽഗോരിതം ഉപയോഗിച്ചാൽ അത് 10 18 ഓപ്പറേഷനുകൾ ചെയ്യേണ്ടിവരും എന്നാൽ നമുക്ക് ഓപ്പറേഷൻ മാത്രമാണ് ഒരു സെക്കൻഡ് ചെയ്യാൻ കഴിയുക അതുകൊണ്ടുതന്നെ ഈ പറഞ്ഞ ഓപ്പറേഷൻ മുഴുവൻ ചെയ്തു തീർക്കാൻ 10 10 സെക്കൻഡുകൾ ആവശ്യമാണ് ഇത് 2 8 മില്യൺ മണിക്കൂറുകളാണ് അതായത് മുന്നൂറു വർഷം ഇത്തരത്തിൽ നോക്കിയാൽ ഇപ്പോൾ നമുടെ കൈവശമുള്ള ഉള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ഒരു n സ്ക്വയർ അൽഗോരിതം ഉപയോഗിച്ച് മുകളിൽ പറഞ്ഞ സോർട്ടിങ് ചെയ്യുന്നത് നമ്മുടെ ജീവിതകാലയളവിനേക്കാൾ അല്ലെങ്കിൽ ഒരുപക്ഷേ പല തലമുറകളുടെ ജീവിതകാലയളവിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നു എന്നാൽ നമ്മൾ കുറച്ചുകൂടി കാര്യക്ഷമമായ n log n അൽഗോരിതം ഉപയോഗിച്ചാൽ മുകളിൽ പറഞ്ഞ അതേ ഉപയോക്താക്കളുടെ എണ്ണത്തിന് 10 10 ന്റെ മൂന്നുമടങ്ങ് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നു കാണാം ഇതിന് കാരണം 2 ബേസ് ആയിട്ടുള്ള 10 9 ന്റെ ലോഗരിതം 30 ആണ് എന്നതാണ് 2 10 എന്നത് അത് 1000 ആണ് എന്നാൽ 1000 ന്റെ 2 ബേസായ ലോഗരിതം പത്താണ് അതുകൊണ്ട് കൊണ്ട് 30 ഗുണം 10 10 n log n എന്നത് 10 10 ന്റെ മൂന്നുമടങ്ങാണ് അതായത് ഈ പ്രവർത്തനത്തിന് 300 സെക്കൻഡുകലാണ് ആവശ്യമുള്ളത് 300 സെക്കൻഡുകൾ എന്നത് അഞ്ചു മിനിറ്റ് ആണ് അഞ്ചുമിനിറ്റ് എന്നത് തീരെ ചെറിയ ഒരു സമയമല്ല ഒരു ചായ കുടിച്ചു തിരിച്ചുവരാൻ ഉള്ള സമയമുണ്ട് എന്നിരുന്നാലും മുൻപ് പറഞ്ഞ ഒരിക്കലും പ്രായോഗികമല്ലാത്ത 300 വർഷം എന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ന്യായമായ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ജോലി ചെയ്ത് തീർത്തു കിട്ടുന്നു ഇനി നമുക്ക് മറ്റൊരുദാഹരണം നോക്കാം നമ്മൾ ഒരു ആക്ഷൻ ടൈപ്പ് വീഡിയോ ഗെയിം കളിക്കുകയാണ് വിചാരിക്കാം ഇതിൽ പല വസ്തുക്കളും സ്ക്രീനിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കുന്നു അവയെ വ്യക്തമായി മനസ്സിലാക്കുകയും അവയെ പിടിക്കുകയോ വെടിവെക്കുകയോ ചെയ്യേണ്ടതുണ്ട് ഇതിൽ സ്കോർ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഭാഗമായി ഇടവിട്ടുള്ള സമയങ്ങളിൽ അടുത്തടുത്തുള്ള രണ്ടു വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായുണ്ട് ഇവിടെ നമുക്ക് എങ്ങനെ നമ്മുടെ സ്ക്രീനിൽ ഉള്ളവയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഉള്ള രണ്ട് വസ്തുക്കൾ കണ്ടുപിടിക്കാം തീർച്ചയായും നമുക്ക് സാധ്യമായ എല്ലാ ജോഡികളുടെയും ഇടയിലുള്ള ദൂരം കണ്ടുപിടിക്കുകയും അതിൽ ഏറ്റവും കുറഞ്ഞ ദൂരം എടുക്കുകയും ചെയ്യാം എന്നാൽ ഇത് ഒരു n സ്ക്വയർ അൽഗോരിതം ആണ് അതായത് രണ്ടു വസ്തുക്കൾ എടുക്കുക അവർക്കിടയിലുള്ള ദൂരം കണ്ടുപിടിക്കുക അതിനുശേഷം ഇതേപോലെ എല്ലാ ജോഡി വസ്തുക്കൾക്കിടയിലുള്ള ഉള്ള ദൂരം കണ്ടുപിടിച് ഏറ്റവും ചെറിയത് എടുക്കുക എന്നാൽ ഇവിടെയും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന n log n സമയം മാത്രം എടുക്കുന്ന ഒരു അൽഗോരിതം ഉണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ n സ്ക്വയറും n log n ഉം തമ്മിലുള്ള ഉള്ള വ്യത്യാസം എന്താണ് ഇന്നത്തെ ഏറ്റവും പുതിയ ഗെയിമിംഗ് കമ്പ്യൂട്ടറുകൾക്ക് വളരെ വലിയ വലിയ ഡിസ്പ്ലേ ആണുള്ളത് ഇതിൽ 2500x 1500 പിക്സൽ റെസല്യൂഷൻ വരെ ഉണ്ടാകാം നമുക്കുള്ളത് ഒരു 20 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള റെസല്യൂഷനിൽ ഏകദേശം 3 75 മില്യൺ പോയിൻറ് സ്ക്രീനിൽ ഉണ്ടാവും ഇതിൽ പല പോയിന്റ്കളിലായി ആയി നമ്മുടെ ഒബ്ജക്റ്റുകളും ഉണ്ടാവും നമുക്ക് അഞ്ചു ലക്ഷം ഒബ്ജക്റ്റകൾ ഉണ്ട് എന്ന് വിചാരിക്കാം അതായത് 500000 ഒബ്ജക്റ്റകൾ നമ്മുടെ സ്ക്രീനിൽ പലഭാഗത്തായി ആയി ഉണ്ട് നമ്മൾ ഇവയുടെ ഇടയിലുള്ള ദൂരം കണക്കാക്കുകയും ഏറ്റവും ചെറിയ ദൂരം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു n സ്ക്വയർ അൽറാരിതം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തിക് ഏകദേശം 2500 സെക്കൻഡുകൾ അഥവാ 40 മിനിറ്റ് എടുക്കും നമ്മൾ കളിക്കുന്ന ഗെയിം നമ്മുടെ പ്രതികരണങ്ങളാണ് നമ്മളുടെ മാർക്ക് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ഓരോ കണക്കുകൂട്ടലും 40 മിനിറ്റ് എടുക്കാൻ പാടുള്ളതല്ല അങ്ങിനെ എടുത്താൽ അതൊരു കാര്യക്ഷമമായ ഗെയിം അല്ല എന്നാൽ n log n സമയം എടുക്കുന്ന ഒരു അൽഗോരിതം ആണെങ്കിൽ അത് ഒരു സെക്കൻഡിന്റെ പത്തിലൊന്നോ നൂറിലൊന്നോ സമയം മാത്രമാണെടുക്കുന്നത് ഇത് ഒരു മനുഷ്യന്റെ സാധാരണ പ്രതികരണ സമയത്തേക്കാൾ വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ ഈ ഗെയിമിൽ നമ്മുടെ പ്രതികരണ സമയം അനുസരിച്ച് തന്നെ മാർക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നീന്നും n സ്ക്വയർ അൽഗോരിതവും nlogn അൽഗോരിതവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്ന് നമ്മൾ കണ്ടു n സ്ക്വയർ അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലത്തിന്റെ വലിപ്പം nlogn അൽഗോരിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ് നമ്മൾ ഈ n ന്റെ ഫംഗ്ഷൻ നോക്കുമ്പോൾ ഇവയിലെ കോൺസ്റ്റൻഡുകൾ പരിഗണിക്കാറില്ല ഇതിന്റെ കാരണം ഭാഗികമായെങ്കിലും പിന്നീട് നമ്മൾ നമ്മൾ ന്യായീകരിക്കുന്നതാണ് അതായത് നമുക്ക് അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളേക്കാൾ ഒരു അൽഗോരിതത്തിന് മൊത്തത്തിലുള്ള കാര്യക്ഷമതയിൽ ആണ് താല്പര്യം അത് ഇൻപുട്ടിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും കണക്കാക്കുക അസിംടോട്ടിക് കോംപ്ലക്സിറ്റി എന്നാണിതറിയപ്പെടുന്നത് n ന്റെ വാല്യു കൂടുതലാകുമ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ആണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് n സ്ക്വയർ സമയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കോഎഫിഷ്യന്റ് ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക അതേപോലെ n ക്യൂബ് സമയത്തിൽ പ്രവർത്തിക്കുന്ന കോഎഫിഷ്യന്റ് 1 ആയ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക ഇൻപുട്ടിന്റെ വലുപ്പം 5000 ആണെങ്കിൽ ആദ്യമൊക്കെ n ക്യൂബ് ഫംഗ്ഷൻ n സ്ക്വയർ ഫംഗ്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ n ക്യൂബ് ഫംഗ്ഷൻ വളരെ കാര്യക്ഷമമാണ് എന്നു തോന്നാമെങ്കിലും ഇൻപുട്ട് വലിപ്പം കൂടുമ്പോൾ n ക്യൂബ് ഫംഗ്ഷൻ n സ്ക്വയർ ഫംഗ്ഷനേക്കാൾ വേഗത്തിൽ വളരുന്നതായി കാണാം ഒരു പ്രത്യേക പോയിന്റിന് ശേഷം n ക്യൂബ് അൽഗോരിതം n സ്ക്വയറിനേക്കാൾ പെട്ടെന്ന് എന്ന് വളരുന്നു വന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഈ ഫംഗ്ഷനെ അതിന്റ കോൺസ്റ്റന്റിനെ പരിഗണിക്കാതെ n ന്റെ ഫംഗ്ഷനായി മാത്രം പരിഗണിച്ച കൂടുതൽ കാര്യങ്ങൾ വിശദമായി നോക്കുന്നു നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് ന്റെ ക്രമത്തിലാണ് താൽപര്യം കാണിക്കുന്നത് ഇത്തരത്തിൽ ഈ ഫങ്ക്ഷനുകളെ പലതരത്തിലുള്ളയായി തരംതിരിക്കാവുന്നതാണ് n n സ്ക്വയർ n ക്യൂബ് nk മുതലായവക് ആനുപാതികമായുള്ളവയെ നമ്മൾ പോളിനോമിയൽ ഫങ്ക്ഷനുകൾ എന്ന് വിളിക്കുന്നു ഇവ കൂടാതെ 2n നു ആനുപാതികമായ ഫങ്ഷനുകൾ ഉണ്ട് സാധ്യമായ എല്ലാ സബ്സറ്റുകളും നോക്കുന്നതിനാൽ ഇവയെ ബ്രൂട്ട് ഫോഴ്സ് അൽഗോരിതം എന്ന് വിളിക്കുന്നു അതായത് നമുക്ക് ലോഗരിതമിക് പോളിനോമിയൽ എക്സ്പോണേൻഷ്യൽ മുതലായ പലതരത്തിലുള്ള ഉള്ള ഫംഗ്ഷനുകൾ ഉണ്ട് ഈ തന്നിരിക്കുന്ന ചാർട്ട് നോക്കുക ഇതിൻറെ ഇടത്തെ അറ്റത്തെ കോളം ഇന്പുട്ട് സൈസ് 10 മുതൽ മുതൽ 10 10 വരെ കാണിച്ചിരിക്കുന്നു അതിനുശേഷമുള്ള ഓരോ കോളങ്ങളും പല ഫംഗ്ഷനുകളുടെയും കോംപ്ലക്സിറ്റിയാണ് കാണിക്കുന്നത് ഇവിടെ കോൺസ്റ്റന്റ് പരിഗണിക്കുന്നില്ല നമുക്ക് login n nlognഎന്നീ ലോഗരിതമിക് ഫങ്ക്ഷനുകളും n n സ്ക്വയർ n ക്യൂബ് എന്നീ പോളിനോമിയൽ ഫങ്ക്ഷനുകളും 2n n എന്നീ എക്സ്പോണേൻഷ്യൽ ഫങ്ക്ഷനുകളും ഉണ്ട് ഇപ്പോൾ ഒരു അൽഗോരിതത്തിന്റെ കാര്യക്ഷമത എന്നത് പ്രായോഗികമായ ഉപയോഗത്തിന് എത്രമാത്രം അനിവാര്യമാണ് എന്ന് നമുക് മനസ്സിലാകുന്നു 10 8 ഓപ്പറേഷൻ നമുക്ക് ഒരു സെക്കൻഡിൽ ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു പത്ത് സെക്കൻഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും അതായത് 109 എന്നതാണ് നമ്മൾ പരിഗണിക്കുന്ന പരിധി കാര്യക്ഷമമായ 1010 ഓപ്പറേഷൻ എന്നാൽ 100 സെക്കൻഡുകൾ ആണ് അതായത് രണ്ട് മിനിറ്റ് ചിലപ്പോൾ രണ്ടു മിനിറ്റ് ഒരു വലിയ സമയം ആയിരിക്കും നമ്മൾ ലോഗരിതമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പ്രശ്നവുമില്ല 1010 വരെയുള്ളത് നമുക്ക് 33 സ്റ്റെപ്പുകളിൽ ചെയ്യാൻ സാധിക്കും അതായത് വളരെ വളരെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ ലീനിയർ സ്കെയിലിൽ ആണെങ്കിൽ എങ്കിൽ 109 ആണ് നമ്മുടെ പരിധി നമ്മൾ ഇവിടെ ഒരു ഒരു ചുവന്ന വര വരയ്ക്കുന്നു ഈ വരയ്ക്ക് താഴെയുള്ളവ വളരെ വേഗത കുറഞ്ഞതായിരിക്കും nlogn എന്നത് n നേക്കാൾ കുറച്ച് മോശമാണ് നമുക്ക് 108 വരെയുള്ള ഇൻപുട്ടുകൾ ചെയ്യുവാൻ സാധിക്കും കാരണം nlogn 108 എന്നത് 109 ന് ആനുപാതികമാണ് n log n ൽ നീന്ന് n സ്ക്വയറിലേക്ക് പോകുമ്പോൾ വളരെ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിധി 104 മുതൽ 10 5 വരെ ആണ് നമ്മൾ n ക്യൂബിലേക് പോകുമ്പോൾ റണ്ണിങ് ടൈം 1010 വരെ എത്തുന്നു ഇത് നമുക് പ്രായോഗികമല്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ടിന്റെ അളവ് ആയിരത്തിൽ കൂടുതലാകുവാൻ സാധിക്കുകയില്ല അതായത് എക്സ്പോണേൻഷ്യൽ അൽഗോരിതം ആണെങ്കിൽ പത്തോ ഇരുപതോ സൈസിൽ കൂടുതലുള്ള ഇൻപുട്ട് പോലും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല 100 സൈസ് ഉള്ള ഇന്പുട്ട് ആണെകിൽ വളരെ സാവകാശം മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളു ഇപ്പോൾ നമുക്ക് ഇതുപോലെ പോലെ കൃത്യമായ ഒരു ഒരു ലൈൻ ഉണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധ്യമായതിനെയും അല്ലാത്തതിനെയും വേർതിരിക്കുന്നു ഒരു കാര്യക്ഷമമായ അൽഗോരിതം ഉണ്ടാകേണ്ടത്തിന്റെ ആവശ്യകത നമുക്ക് ഇപ്പോൾ മനസ്സിലായി അൽഗോരിതം കാര്യക്ഷമമല്ലെങ്കിൽ അത് ഒരു നിശ്ചിത സൈസിൽ കൂടുതലുള്ള ഇൻപുട്ടുകൾക്ക് ഉപയോഗപ്രദമല്ല സാധാരണയായി ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന അൽഗോരിതത്തിന് ഇൻപുട്ട് സൈസ് നൂറോ ആയിരമോ ആകാമല്ലോ കാര്യങ്ങൾ കൃത്യമായി സംഗ്രഹിച്ചാൽ വലിയ ഇൻപുട്ട് സൈസുകൾ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ജനസംഖ്യ കണക്ക് വിവരങ്ങൾ ജനറ്റിക് മെറ്റീരിയലുകൾ ഉൾപ്പെടുന്ന ബയോളജി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിലെല്ലാം വളരെ വലിയ ഡേറ്റ ഉണ്ടാവും ഇതിനെല്ലാം കാര്യക്ഷമമായ അൽഗോരിതം ഉണ്ടെങ്കിൽ മാത്രമേ ഇവ കൃത്യമായി സോൾവ് ചെയ്യുവാൻ സാധികയുള്ളൂ